കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റുകളിലെ ലൈൻ സർഫേസ് ഏരിയ വോളിയം എലെമെന്റുകൾ നിങ്ങൾ ഇത് വരെ കണ്ടത് പോലെ നാം ഇലക്ട്രിക്ക് ഫീൽഡ് കണക്കാക്കുകയോ ചാർജിൻമേലുള്ള ബലം കണക്കാക്കുകയോ ആണ് ചെയ്തിരുന്നത് ഇതിന്നായി ചെയ്യേണ്ടിയിരുന്നത് വിവിധ സാഹചര്യം അനുസരിച്ച് പല തരത്തിലുള്ള കോ ഓർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുക എന്നതാണ് അപ്പോൾ ഞാൻ ഈ ലെക്ച്ചറിൽ ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള കോ ഓർഡിനേറ്റ് സിസ്റ്റങ്ങൾ പരിശോധിക്കുക എന്നതാണ് അപ്പോൾ അവ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കും ഞാൻ കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റ് സിസ്റ്റം പരിശോധിക്കുന്നു ഞാൻ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റം പരിശോധിക്കുന്നു അവസാനമായി ഞാൻ സ്ഫറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റം പരിശോധിക്കുന്നു ഇവയാണ് നാം പല പ്രശ്നങ്ങളിലും കൂടെക്കൂടെ ഉപയോഗിക്കുന്നവ അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റ് സിസ്റ്റം മുതൽ തുടങ്ങാം ഇതിൽ ഒരു പോയിന്റിനെ സൂചിപ്പിക്കുന്നത് ഒറിജിനിൽ നിന്നുള്ള എക്സ്വൈസെഡ് കോ ഓർഡിനേറ്റ്കൾ കൊണ്ടാണ് ഞാൻ എക്സ്വൈസെഡ് എന്ന ഒരു പോയിന്റ് നൽകുമ്പോൾ എക്സ് ദിശയിൽ എക്സ് ദൂരം വൈ ദിശയിൽ വൈ ദൂരം സെഡ് ദിശയിൽ സെഡ് ദൂരം എന്നിങ്ങനെ നീങ്ങുന്നു അപ്പോൾ ഈ ദൂരം വൈ ഈ ദൂരം എക്സ് കൂടാതെ ഈ ഉയരം സെഡ് ആകുന്നു ഈ കോ ഓർഡിനേറ്റ് സിസ്റ്റമിലെ ഒരു രേഖ എലമെന്റ് ഞാൻ പോയിന്റ് എക്സ്വൈസെഡ് ൽ നിന്ന് അടുത്ത പോയിന്റി ലേക്ക് പോകുമ്പോൾ അത് എക്സ് പ്ലസ് ദിസ് വൈ പ്ലസ് ഡി വൈ സെഡ് പ്ലസ് ഡി സെഡ് ആയിരിക്കാം അപ്പോൾ രേഖ എലമെന്റ് ഡി എൽ എന്നത് ഡി എക്സ് യൂണിറ്റ് വെക്ടർ എക്സ് ദിശയിൽ പ്ലസ് ഡി വൈ യൂണിറ്റ് വെക്ടർ വൈ ദിശയിൽ പ്ലസ് ഡി സെഡ് യൂണിറ്റ് വെക്ടർ സെഡ് ദിശയിൽ ആകുന്നു അടുത്തതായി ഞാൻ സർഫേസ് ഏരിയ എലമെന്റ് എടുക്കുന്നു നിങ്ങൾ സർഫേസ് ഏരിയ എലെമെന്റിന്റെ വെക്ടർ സ്വഭാവത്തെപ്പറ്റി പരിചിതരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും നാം ഇലക്ട്രിക്ക് ഫീൽഡിന്റെ ഫ്ലക്സ് കണക്കാക്കുന്നത് നാം മനസ്സിലാക്കിയ സാഹചര്യത്തിൽ നാം അറയെ ഒരു വെക്ടർ അളവയാണ് ഉപയോഗിച്ചത് സമാനമായി നാം ഡൈവേർജൻസും അത് പോലെയുള്ള മറ്റു കാര്യങ്ങളും കണക്കാക്കുമ്പോൾ ഡൈവേർജെൻസ് തിയറം ഉപയോഗിക്കുമ്പോൾ എല്ലാം നാം സർഫേസ് ഏരിയയെ ഒരു വെക്ടർ അളവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാൻ ലംബമായ സർഫേസ് ഏരിയ എക്സ് ദിശയിലെ സർഫേസ് ഏരിയയും വൈ ദിശയിലെ സർഫേസ് ഏരിയയും സെഡ് ദിശയിലെ സർഫേസ് ഏരിയയും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എക്സ് ദിശയിലെ സർഫേസ് ഏരിയ കൺവെൻഷൻ പ്രകാരം എക്സ് ആക്സിസിന് ലംബമായിരിക്കും അതിനാൽ ഇത് വൈ സെഡ് തലത്തിന് സമാന്തരമായിരിക്കും കൂടാതെ ഈ ദൂരം ഡി വൈ ഈ ദൂരം ഡി സെഡ് ഞാൻ സർഫേസ് ഏരിയ എലെമെന്റ് ഡിഎസ് നെ വൈ സെഡ് ഡി എക്സ് ഡി വൈ എന്ന് എഴുതുന്നു അല്ല ഇത് ഡി എക്സ് അല്ല ഇത് എക്സ് ന് ലംബമാണ് അപ്പോൾ ഞാൻ ഇത് എക്സ് ദിശയിൽ ഡി വൈ ഡി സെഡ് എന്നെഴുതണം സമാനമായി വൈ ദിശയിലെ ഏരിയ എലമെന്റ് വൈ ആക്സിസിന് ലംബമായിരിക്കും അതിന് എക്സ് എലമെന്റ് വീതി ഡി എക്സ് ഉയരം ഡി സെഡ് ആയിരിക്കും അതിനാൽ ആ ദിശയിൽ ഡി എസ് എന്നത് വൈ ദിശയിലും സെഡ് ദിശയിലും ഡി എക്സ് ഡി സെഡ് ആയിരിക്കും അപ്പോൾ ഞാൻ കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിൽ സർഫേസ് ഏരിയ നിർവചിച്ചു കഴിഞ്ഞു മൂന്നാമതായി ഞാൻ നിങ്ങൾക്കായി വോളിയം എലമെന്റ് കണ്ടുപിടിക്കുന്നു സ്വാഭാവികമായി കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിൽ വോളിയം എലമെന്റ് ഒരു പെട്ടിയുടെ രൂപമായിരിക്കും ഒരു ചെറിയ പെട്ടിയുടെ രൂപം എക്സ് വൈ സെഡ് ദിശകളിൽ ഡി എക്സ് ഡി സെഡ് ഈ ദിശയിൽ ഡി വൈ വലിപ്പം ഉള്ളത് അപ്പോൾ വോളിയം എലമെന്റ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ആകുന്നു യൂണിറ്റ് വെക്റ്ററുകൾ നമുക്കറിയാവുന്നത് പോലെ എക്സ്വൈസെഡ് ആണ് അവ ശൂന്യതയിൽ സ്ഥിരമാണ് ഇവ സ്ഥിരമായ യൂണിറ്റ് വെക്റ്ററുകൾ ആണ് അവയുടെ ദിശ മാറുന്നില്ല അളവ് ഒന്ന് ആണ് അടുത്തതായി നമുക്ക് സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റം പരിഗണിക്കാം നാം സിലിണ്ടറിക്കൽ സിമെട്രിയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് ഉപയോഗപ്രദമായിരിക്കും അതിനർത്ഥം സെഡ് ആക്സിസ് അടിസ്ഥാനമായി സിമെട്രി ഉള്ളവ സെഡ് ആക്സിസിൽ കൂടി പോകുമ്പോൾ ഒന്നും വ്യത്യാസപ്പെടുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം കോ ഓർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാക്കട്ടെ ഇതാണ് എന്റെ ഒറിജിനലായ എക്സ്വൈസെഡ് കോ ഓർഡിനേറ്റ് സിസ്റ്റം സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാൻ എക്സ്വൈ തലത്തിൽ ഒരു പോയിന്റ് അകലം കണക്കാക്കി നിശ്ചയിക്കുന്നു നാം ഇതിനെ എസ് എന്ന് വിളിക്കുന്നു ഞാൻ ഗ്രിഫിത്തിന്റെ പുസ്തകത്തിലെ നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത് അതിനു ശേഷം നാം എക്സ് ആക്സിസിൽ നിന്നുള്ള ആംഗിൾ അളക്കുന്നു അതിനെ ഞാൻ ഫൈ എന്ന് വിളിക്കുന്നു അതിനു ശേഷം എക്സ് വൈ തലത്തിൽ നിന്നുള്ള ഉയരം അതായത് സെഡ് കോ ഓർഡിനേറ്റ് ഞാൻ ഇതിനെ സെഡ് എന്ന് വിളിക്കുന്നു അപ്പോൾ ഇത് റോ റോ അല്ല ഞാൻ പറഞ്ഞത് എസ് എന്നാണ് എസ്ഫൈസെഡ് കൊണ്ട് സൂചിപ്പിക്കുന്നു എനിക്ക് ഈ സിസ്റ്റം സൂചിപ്പിക്കുവാൻ മൂന്നു കോ ഓർഡിനേറ്റ്കൾ ആവശ്യമുണ്ട് അതിനാൽ നാം എസ്ഫൈസെഡ് എന്ന് പേര് നൽകുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ഇവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും എസ് എന്നത് കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സ്ക്വയർ റൂട്ട് അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ടാൻജെന്റ് ഫൈ എന്നത് വൈ ഭാഗം എക്സ് ആണ് സെഡ് എന്നത് സെഡ് ആണ് ഈ സമവാക്യങ്ങളെ തിരിച്ചിട്ടാൽ എനിക്ക് എക്സ് എന്നത് എസ് കോസൈൻ ഫൈ യും വൈ എന്നത് എസ് സൈൻ ഫൈ ആയിരിക്കും നമുക്ക് യൂണിറ്റ് വെക്റ്ററുകളെ നോക്കാം ഞാൻ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിലെ യൂണിറ്റ് വെക്റ്ററുകളെ നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ ഫൈ ആണ് ഈ ദൂരം എസ് ആണ്ഈ ഉയരം സെഡ് ആണ് എസ് ദിശയിലെ യൂണിറ്റ് വെക്ടർ ഒറിജിനിൽ നിന്നും ദൂരേക്ക് പോകുന്നു സ്വാഭാവികമായി ഞാൻ മറ്റൊരു പോയിന്റി ലേക്ക് പോയാൽ ഉദാഹരണത്തിന് ഇവിടെ എസ് യൂണിറ്റ് വെക്ടർ ദിശ മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒറിജിനിൽ നിന്ന് ദൂരേക്ക് പോകുന്ന എസ് യൂണിറ്റ് വെക്ടർ ശൂന്യതയിൽ സ്ഥിരമല്ല ഇത് നിങ്ങൾ ഏതു പോയിന്റി ലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനു ശേഷം ഞാൻ ഫൈ യൂണിറ്റ് വെക്ടർ നിർവചിക്കാം ഇത് എസ്സിന് ലംബമായി എക്സ് വൈ തലത്തിലാണ് അപ്പോൾ ഫൈ ഞാൻ കാണിക്കുന്ന ഈ ചുവപ്പു യൂണിറ്റ് വെക്ടറാണ് ഇതും സ്ഥിരമല്ല മൂന്നാമത്തേത് സെഡ് യൂണിറ്റ് വെക്ടറാണ് ഇത് കാർട്ടീഷ്യൻ കോ ഓർഡിനേറ്റിലേത് പോലെ സ്ഥിരമാണ് എസ് യൂണിറ്റ് വെക്ടർ കോസൈൻ ഫൈ ആണെന്നും വൈ യൂണിറ്റ് വെക്ടർ എസ് പ്ലസ് സൈൻ ഫൈ ആണെന്നും ഫൈ യൂണിറ്റ് വെക്ടർ മൈനസ് സൈൻ ഫൈ ഗുണം എക്സ് യൂണിറ്റ് വെക്ടർ പ്ലസ് കോസ് ഫൈ ഗുണം വൈ യൂണിറ്റ് വെക്ടർ ആണെന്നും സെഡ് വ്യക്തമായി സെഡ് തന്നെയാണെന്നും ഈ ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് ഈ പോയിന്റി ന്റെ വെക്ടർ സ്ഥാനത്തു നിന്നും എസ്ഫൈസെഡ് എന്ന പോയിന്റി ന്റെ വെക്ടർ സ്ഥാനം കാണിക്കണമെങ്കിൽ അത് എസ് ദിശയിലെ വെക്ടറിന്റെയും സെഡ് ന്റെയും തുകയാണ് അപ്പോൾ വെക്ടർ ആർ എന്നത് എസ് ദിശയിലുള്ള എസ് പ്ലസ് സെഡ് ദിശയിലുള്ള സെഡ് ആണ് അത് പോയിന്റി ന്റെ സ്ഥാനമാണ് ഒറിജിനിൽ നിന്നും ഈ പോയിന്റി ലേക്കുള്ള വെക്ടർ നമുക്ക് സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റ് സിസ്റ്റത്തിലെ ലൈൻ ഏരിയ വോളിയം എലെമെന്റുകളെക്കുറിച്ച് നോക്കാം അപ്പോൾ ഞാൻ പോയിന്റ് എസ്ഫൈസെഡ് ൽ നിന്നും വേറൊരു പോയിന്റി ലേക്ക് പോകുകയാണെങ്കിൽ എസ് പ്ലസ് ഡി എസഫൈ പ്ലസ് ഡി ഫൈസെഡ് പ്ലസ് ഡി സെഡ് എന്ന പോയിന്റി ലേക്ക് അപ്പോൾ രേഖ എലമെന്റ് ഡി എൽ എങ്ങിനെയാണ് കാണപ്പെടുന്നത് എന്ന് നമുക്ക് ജോമെട്രിക്കലായി നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാക്കി അത് എസഫൈസെഡ് ആണ് അതിന്റെ പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ആണെന്ന് വിചാരിക്കുക അത് എസ് എസ് പ്ലസ് സെഡ് സെഡ് ആണ് അടുത്ത പോയിന്റ് വളരെ അടുത്താണ് അത് എസ് ഫൈ പ്ലസ് ഡി ഫൈ സെഡ് പ്ലസ് ഡി സെഡ് ആണ് അപ്പോൾ ആർ പ്ലസ് ഡി ആർ അല്ലെങ്കിൽ ഡി എൽ എന്നെനിക്കെഴുതാം കിട്ടുന്നത് എസ് ൽ നിന്നും ദൂരം ഡി എസ് കൂട്ടിയാണ് എസ് പ്ലസ് ഡി എസ് എനിക്കിവിടെ എഴുതാം ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ എസ് സ്ഥിരമല്ല അതിനാൽ ഞാൻ എസ് ന്റെ ദിശ മാറ്റുന്നു എസ് പ്ലസ് സെഡ് പ്ലസ് ഡി സെഡ് ഇത് സ്ഥിരമാണ് അപ്പോൾ ഫസ്റ്റ് ഓർഡർ മാത്രം നിലനിർത്തുമ്പോൾ എനിക്കിത് എസ് എസ് പ്ലസ് എസ് ഡിഎസ് യൂണിറ്റ് വെക്ടർ ഇത് യൂണിറ്റിവെയ്റ്ററിലെ വ്യത്യാസം പ്ലസ് ഡി എസ് ആണ്അതായത് എസ് അധിക സെഡ് ന്റെ ദിശയിലുള്ള ദൂര വ്യത്യാസം ഇന്നിത് വെക്ടർ സെഡ് ദിശയിൽ പ്ലസ് ഡി സെഡ് സെഡ് ഉം ഇത് കൂടി ചേർന്നാൽ ഇടതുവശത്തെ ആർ നു തുല്യമാണ് ഇത് എസ് യൂണിറ്റ് വെക്ടർ എസ് പ്ലസ് സെഡ് ഡി സെഡ് പ്ലസ് ഡി എൽ ആകുന്നു നമുക്ക് ചില ടേമുകൾ ക്യാൻസൽ ചെയ്യാം എസ് എസ് ക്യാൻസൽ ചെയ്യപ്പെടും ഇത് സെഡ് സെഡ് പ്ലസ് ഡി എൽ ആണ് വലതു വശത്തെ ഈ ടേമിലെ സെഡ് സെഡ് ക്യാൻസൽ ചെയ്യും അതിനാൽ എനിക്ക് ഡിഎൽ സമം എസ് ഡിഎസ് പ്ലസ് ഡിഎസ് എസ് പ്ലസ് ഡിസെഡ് സെഡ് ശ്രദ്ധിക്കുക ഞാൻ എസ് ദിശയിൽ ഡി എസ് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഒരു വെക്ടർ ഡിഎസ് എസ് കിട്ടും സെഡ് ദിശയിൽ നീങ്ങുമ്പോൾ ഒരു വെക്ടർ ഡിസെഡ് സെഡ് കിട്ടും സെഡ് യൂണിറ്റ് വെക്ടർ എന്നത് അധികമുള്ള ഒരു ടേം ആണ് നമുക്ക് നോക്കാം എന്താണ് ഡിഎസ് ഡി എസ് യൂണിറ്റ് വെക്ടർ മാറിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ എക്സ് വൈ തലത്തിൽ നോക്കാം ഇത് എന്റെ എക്സ് ഇത് എന്റെ വൈ ആയിരുന്നു നാം ചെയ്തത് എന്തായിരുന്നു ഈ ഡി എസ് ഇങ്ങനെയായിരുന്നു അത് അല്പം വ്യത്യാസപ്പെട്ടു ഇത് ഫൈ ദിശയിലായിരുന്നു ഇപ്പോളത് ഫൈ പ്ലസ് ഡി ഫൈ ദിശയിലാണ് കൂടാതെ ഈ വ്യത്യാസം ഞാൻ നീലനിറത്തിൽ കാണിക്കാം ഈ യൂണിറ്റ് വെക്ടർ ആണ് ഈ വെക്ടർ യൂണിറ്റ് വെക്ടറല്ല ഈ വെക്ടർ ഈ ആദ്യത്തെ വ്യത്യാസം ഫൈ ദിശയിലാണെന്നത് ശ്രദ്ധിക്കുക കൂടാതെ ഈ അളവ് ഡി ഫൈ ഗുണം ഈ ദൂരം അത് ഒന്നാണ് അപ്പോൾ ഇത് എസ് ഡി എസ് അല്ലെങ്കിൽ ഡി എസ് വെക്ടറിന്റെ അളവ് ഒന്ന് ഗുണം ഡി ഫൈ ഫൈ ദിശയിലാണ് അതിനാൽ എനിക്ക് ഈ രേഖ എലമെന്റ് ഡി എൽ നെ എസ് ഡി എസ് എഴുതാം അത് എസ് ഡി ഫൈ ഫൈ ദിശയിൽ പ്ലസ് ഡി എസ് എസ് പ്ലസ് ഡി സെഡ് സെഡ് നു തുല്യമാണ് അതാണ് സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റിലെ ലൈൻ എലമെന്റ് ഇത് കൃത്യമായി അർത്ഥവത്താണ് എന്തെന്നാൽ നിങ്ങൾ ഓരോ ടേം നോക്കുകയാണെങ്കിൽ ഇത് ഫൈ ദിശയിൽ നീങ്ങിയ ദൂരമാണ് ഇത് എസ് ദിശയിൽ നീങ്ങിയ ദൂരമാണ് ഇത് സെഡ് ദിശയിൽ നീങ്ങിയ ദൂരമാണ് അടുത്തതായി നമുക്ക് ഏരിയ എലമെന്റ് നോക്കാം ഞാൻ സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റിലെ ഏരിയ എലമെന്റ് നോക്കിയാൽ ഞാൻ എസ് നു ലംബമായ ഫൈ ക്കു ലംബമായസെഡ് നു ലംബമായ ഏരിയയിലെ എക്സ്വൈസെഡ് നോക്കുകയാണ് ഇതാണ് എസ് യൂണിറ്റ് വെക്ടർ ഞാൻ എസ് നു ലംബമായ ഏരിയ നോക്കുകയാണ് എങ്കിൽ ഒരു എലമെന്റ് ഇത് പോലെ എക്സ് വൈ തലത്തിലായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാം ഈ ഏരിയയുടെ രണ്ടാമത്തെ എലമെന്റ് സെഡ് ദിശയിലായിരിക്കും ഈ ദൂരം അൽപ്പം മുൻപ് നാം കണ്ടതുപോലെ എസ് ഡിഫൈ ആയിരിക്കും ഉയരം ഡിസെഡ് ആയിരിക്കും അപ്പോൾ ഫൈ ദിശയിലുള്ള ഏരിയ എലമെന്റ് ഡിഎസ് എസ് ഡി ഫൈ ഡി സെഡ് ആയിരിക്കും നിങ്ങൾ യൂണിറ്റ് ദൂരത്തിന്റെ സ്ക്വയർ ആയിരിക്കുമെന്ന് കാണാം അടുത്തതായി ഫൈ ദിശയിൽ എങ്ങിനെയാണ് ഞാൻ സെഡ് ദിശയിൽ ഉള്ള ഫൈ ദിശക്ക് ലംബമായി ഒരു എലമെന്റ് എടുക്കുന്നു ഇത് ഫൈ ദിശയിലുള്ള ഏരിയ ആണ് ഈ ദൂരം ഫൈ ക്ക് ലംബമാണ് അത് ഡി എസ ആണ് ഉയരം ഡി സെഡ് ആണ് അതിനാൽ ഫൈ ദിശയിൽ ഡി എസ ഡി എസ് തന്നെയാണ് ഫൈ ദിശയിൽ ഡി സെഡ് ഞാൻ ഇവിടെ എസ് ദിശ എന്നെഴുതിയിരിക്കണം ഞാൻ സെഡ് ദിശക്ക് ലംബമായി ഏരിയ എലമെന്റ് നോക്കുകയാണെങ്കിൽ ഇത് ഡി എസ് ആയിരിക്കും കൂടാതെ ഞാൻ ഇത് പോലെ നീങ്ങും ഡിഎസ് ഉം എസ് ഡിഫൈ യും അതിനാൽ സെഡ് ദിശയിലെആരെയേ എലമെന്റ് ഡിഎസ് ഡിഎസ് ഗുണം എസ് ഗുണം ഡി ഫൈ ആയിരിക്കും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തീർച്ചപ്പെടുത്താം എനിക്ക് എക്സ്വൈ തലത്തിലുള്ള ഒരു യൂണിറ്റ് വൃത്തത്തിന്റെ ഏരിയ നോക്കണമെങ്കിൽ ഇത് ഒരു യൂണിറ്റ് വൃത്തം ആണെന്ന് വിചാരിക്കുകഅതായത് റേഡിയസ് ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റേഡിയസ് ആർ എടുക്കാം ഇതിന്റെ ഏരിയ എന്നത് എസ് ഡി എസ് ഡി ഫൈ യുടെ ഇന്റഗ്രേഷൻ ആയിരിക്കുക എസ് പൂജ്യം മുതൽ ആർ വരെ ഫൈ പൂജ്യം മുതൽ രണ്ടു പൈ വരെ അപ്പോൾ നിങ്ങൾക്ക് പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും അല്ലെങ്കിൽ ഞാൻ സിലിണ്ടറിന്റെ ഈ വശത്തെ ഉപരിതല ഏരിയ ആണ് നോക്കുന്നതെങ്കിൽ ഈ ഏരിയ എസ് ദിശയിലാണ് എന്ന് നിങ്ങള്ക്ക് കാണാം എനിക്കിതിന്റെ അളവ് കണക്കാക്കണമെങ്കിൽ അപ്പോൾ ഏരിയ എന്നത് എസ്സിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും അത് ഈ തലത്തിന് സ്ഥിരമായിരിക്കും റേഡിയസ് ആർ ഡിസെഡ് ഡിഫൈ ഇത് ആർ അല്ലാതൊന്നുമല്ല ഡി സെഡ് എന്നത് സിലിണ്ടറിന്റെ ഉയരം ഗുണം രണ്ടു പൈ അതായത് രണ്ടു പൈ ഗുണം ആർ ഗുണം എച്ച് പരിചിതമായ ഒരു ഫലം മൂന്നാമതായി നമുക്ക് സിലിണ്ടറിക്കൽ കോ ഓർഡിനേറ്റിലെ വോളിയം എലമെന്റ് നോക്കാം വോളിയം എന്നത് ഏതെങ്കിലും ഏരിയ ഗുണം ഉയരം മാത്രമാണ് അതിനാൽ എനിക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏരിയ എടുക്കാം ഞാൻ സെഡ് ദിശയിലുള്ള ഏരിയ എടുക്കുന്നു എന്ന് വിചാരിക്കുക ഇത് ഡി എസ് ഗുണം എസ് ഡിഫൈ ആണെന്ന് നാം കണ്ടു അപ്പോൾ എസ്ഡി എസ് ഡി ഫൈ കൂടാതെ വോളിയം എലെമെന്റിന്റെ ഉയരം ഡി സെഡ് ആയിരിക്കും അപ്പോൾ എനിക്ക് ഇവ വെറുതെ ഡി സെഡ് കൊണ്ട് ഗുണിക്കാം അതാണ് വോളിയം എലമെന്റ് നിങ്ങൾക്ക് മറ്റു ഏരിയ കൾ എടുത്ത് ഇത് ശരിയാണെന്ന് കാണാം അപ്പോൾ വോളിയം എലമെന്റ് ഡി വി എന്നത് എസ് ഡിഎസ് ഡിഫൈ ഡിസെഡ് അല്ലാതൊന്നുമല്ല